നമ്മൾ തുടരുന്നു അടുത്തത് ഒരു മോട്ടോറിൽ വികസിപ്പിച്ച ടോർക്ക് ആണ് ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇവ ബ്രഷുകളാണ് ഇവയാണ് കണ്ടക്ടർ സ്ഥാപിച്ചിരിക്കുന്ന വശം ഇവിടെ നോക്കിയാൽ അത് ഇവിടെ ഫ്ലക്സ് ഉണ്ടാക്കുന്നു ഈ എൻ പോൾ ഇവിടെ S ഇവിടെ ഡോട്ട് ആണ് അതിനർത്ഥം അതിലേക്ക് വൈദ്യുതപ്രവാഹം പ്രവേശിക്കുകയും ആ സ്ഥലം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇത് കൺവെൻഷൻ ആണ് ഇത് സിലിണ്ടർ ആകൃതിയിലുള്ള ടോർക്കിന്റെ ഉത്പാദനമാണ് അതിനാൽ കാര്യങ്ങൾ വളരെ ലളിതമാണെന്ന് നമ്മൾ കണ്ടെത്തും ഇപ്പോൾ ഒരു മെഷീന്റെ ഫീൽഡ് ആവേശഭരിതമാകുമ്പോൾ അവയും സാധ്യതയുള്ള വ്യത്യാസവും മെഷീൻ ടെർമിനലുകളിൽ മതിപ്പുളവാക്കുമ്പോൾ ആർമേച്ചർ വിൻഡിംഗിലെ വൈദ്യുത പ്രവാഹം എയർ ഗ്യാപ് ഫ്ലക്സുമായി പ്രതിപ്രവർത്തിച്ച് ഒരു ടോർക്ക് ഉത്പാദിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ചിത്രം 3 ഈ രണ്ട് ഡോട്ടുകളും ഇവിടെയുണ്ട് ഇത് അടിസ്ഥാനപരമായി ന്യൂട്രൽ സോണാണ് അപ്പോൾ ചിത്രം 13 ഒരു മോട്ടോറിൽ ടോർക്ക് ഉത്പാദിപ്പിക്കുന്നത് ചിത്രീകരിക്കുന്നു ഇപ്പോൾ ബ്രഷുകൾ ന്യൂട്രൽ ആക്സിസിൽ ആയിരിക്കുമ്പോൾ എല്ലാ അർമേച്ചർ കണ്ടക്ടറുകളും ഉത്തരധ്രുവത്തിന് കീഴിൽ ഒരു ദിശയിലേക്ക് വൈദ്യുത പ്രവാഹങ്ങൾ വഹിക്കുന്നു അതേസമയം ദക്ഷിണധ്രുവത്തിൽ കിടക്കുന്നവർ വിപരീത ദിശയിലേക്ക് വൈദ്യുതധാരകൾ വഹിക്കുന്നു അതിനാൽ ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഒരു നിഷ്പക്ഷ മേഖലയാണ് അതിനാൽ ഉത്തരധ്രുവത്തിനു കീഴിലുള്ള എല്ലാ വിദ്യുച്ഛക്തിവാഹകങ്ങളും അവയ്ക്ക് കീഴിലുള്ള എല്ലാ വൈദ്യുതധാരകളും ഒരു ദിശയിലേക്ക് ഒഴുകുന്നു തെക്ക് ദക്ഷിണധ്രുവത്തിന് കീഴിലുള്ള വിദ്യുച്ഛക്തിവാഹകങ്ങളും വൈദ്യുത പ്രവാഹങ്ങൾ എതിർ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു കാരണം അവ പേജ് ഉപേക്ഷിച്ച് മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു ഇത് ബ്രഷുകളാണ് ഓരോ അർമേച്ചർ ചുരുളുകളിലെയും വൈദ്യുതി ന്യൂട്രൽ ആക്സിസിലൂടെ നിഷ്പക്ഷ അക്ഷധ്രുവo കടന്നുപോകുന്ന നിമിഷത്തിൽ പ്രതിലോമമാക്കാൻ കമ്മ്യൂട്ടേറ്ററുകൾ സഹായിക്കുന്നു അതിനാൽ ആമേച്ചർ കറങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ ബന്ധം സ്ഥിരമായി നിലനിർത്തുന്നു അതിനാൽ ആർമേച്ചർ കമ്യൂട്ടേറ്റർ സെഗ്മെന്റ് തിരിക്കും ഈ ധ്രുവത π ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ നിഷ്പക്ഷ അച്ചുതണ്ട് കടന്നുപോകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നിലനിർത്തും അതിനാൽ ഈ രണ്ട് ബ്രഷുകളുടെയും ഈ ധ്രുവീകരണം എല്ലായ്പ്പോഴും ഒരേപോലെ തുടരും അതായത് ഒരു ഡിസി മെഷീനിൽ നിരവധി ബ്രഷുകൾ ഉണ്ട് നിരവധി കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റുകൾ ഉണ്ട് ആ തുറന്ന ഡിസി മെഷീനിൽ നമ്മൾ അത് കാണുന്നു ആ സാഹചര്യത്തിൽ അത് നിഷ്പക്ഷ അച്ചുതണ്ടിലൂടെ കടന്നുപോകുന്നു അതിനാൽ അർമേച്ചർ കറങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ ബന്ധം എല്ലായ്പ്പോഴും നിലനിർത്തപ്പെടും അതിനാൽ ഓരോ ആർമേച്ചർ കോയിലിലെയും വൈദ്യുതി പ്രതിലോമമാക്കുവാൻ കമ്മ്യൂട്ടേറ്റർ സഹായിക്കുന്നു അടുത്തത് ഉത്തരധ്രുവത്തിന് കീഴിലുള്ള എല്ലാ വിദ്യുച്ഛക്തിവാഹകങ്ങളും ഉള്ളിലേക്ക് ഒഴുകുന്ന വൈദ്യുതധാരകൾ വഹിക്കുന്നു ഫ്ലക്സ് കൺവെൻഷനിലൂടെ ഞാൻ അത് കാണിച്ചു അത് വായു വിടവ് ഫ്ലക്സുമായി പ്രതിപ്രവർത്തിച്ച് താഴേക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയും വിപരീത ഘടികാരദിശയിലുള്ള ടോർക്കും സൃഷ്ടിക്കുന്നു ഇതാണ് രേഖാചിത്രം ഇവിടെ ശക്തമായ കാന്തിക മണ്ഡലത്തിൽ നിന്ന് ബലഹീനതയിലേക്കുള്ള ശക്തി ഈ രേഖാചിത്രത്തിൽ എല്ലായിടത്തു നിന്ന് ആ അമ്പിലേക്കുള്ള നോട്ടം താഴേക്ക് കാണപ്പെടുന്നു ഇവിടെ അത് മുകളിലേക്ക് ആണ് അതിൽ നിന്ന് ടോർക്ക് വികസിപ്പിക്കപ്പെടുമെന്ന് കണ്ടെത്താനാകും ഈ സാഹചര്യത്തിൽ അതിനു കീഴിൽ അത് താഴേയ്ക്ക് പ്രവർത്തിക്കുന്ന ശക്തികളെയും എതിർ ഘടികാരദിശയിലുള്ള ഡോട്ടുകളെയും സൃഷ്ടിക്കുന്നു അതുപോലെ ദക്ഷിണധ്രുവത്തിന് കീഴിലുള്ള വിദ്യുച്ഛക്തിവാഹകങ്ങൾ പുറത്തേക്ക് ഒഴുകുന്ന വൈദ്യുതധാര വഹിക്കുന്നു അത് മുകളിലേക്ക് പ്രവർത്തിക്കുന്ന ശക്തി സൃഷ്ടിക്കുന്നു ഈ ശക്തികൾ എതിർ ഘടികാരദിശയിലുള്ള ടോർക്കും സൃഷ്ടിക്കുന്നു അതിനർത്ഥം എയർ ഗ്യാപ് ഫ്ലക്സ് എല്ലാ സ്ഥാനങ്ങളിലും വ്യാസാർദ്ധമായി ദിശാസൂചിതമാണെന്ന് കരുതുകയാണെങ്കിൽ ഓരോ ശക്തിയും സ്പഷ്ടമായി പ്രവർത്തിക്കുകയും അതിന്റെ ലിവർ ഭുജം കൊണ്ട് ഗുണിച്ച ശക്തിക്ക് തുല്യമായ വഴിത്തിരിവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു വൈദ്യുതീതവാഹിയുടെ മധ്യത്തിൽ നിന്ന് സ്തംഭത്തിന്റെ മധ്യത്തിലേക്ക് വ്യാസാർദ്ധമായ ദൂരം ഉണ്ട് അതിനാൽ ഈ വഴി നമുക്ക് ശക്തിപ്രഭാവത്തിന്റെ സമവാക്യം അറിയാൻ കഴിയും നമുക്ക് emf സമവാക്യം അറിയാം അതിനാൽ ഓരോ വൈദ്യുതീതവാഹിയുo വികസിപ്പിച്ചെടുത്ത ടോർക്കിന്റെ വ്യാപ്തി bIL ആയിരിക്കും ഇതാണ് ശക്തി ഇത് ra ന്യൂട്ടൺ മീറ്റർ യഥാർത്ഥത്തിൽ എവിടെയാണ് j അളക്കുന്നത് ഇത് ഒരു ഗോളസ്തംഭത്തിന്റെ ആകൃതിയാണ് ഇത് ഡയഗ്രാമിൽ കാണിക്കാത്ത ഒരു ഗോളസ്തംഭത്തിന്റെ ആകൃതിയാണ് ഇത് മധ്യത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് നിർമ്മിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു അർദ്ധവ്യാസം ആണ് ഇവയെല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു ശ്രദ്ധാപൂർവ്വം വായിക്കുക അതിനാൽ ഇത് ടോർക്ക് സമവാക്യമാണ് B IL r ന്യൂട്ടൺ മീറ്റർ ഇപ്പോൾ മോട്ടോറിൽ Z എന്ന് വിളിക്കാവുന്ന വിദ്യൂച്ഛക്തിവാഹകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആർമേച്ചർ വികസിപ്പിച്ച മൊത്തം ടോർക്ക് BIL r Z ന്യൂട്ടൺ മീറ്ററായിരിക്കും കാരണം അത് ഒരു വിദ്യൂച്ഛക്തിവാഹകത്തിനു വേണ്ടിയായിരുന്നു പക്ഷേ ആകെ BIL r Z ന്യൂട്ടൺ മീറ്ററായിരിക്കും ഇപ്പോൾ B ഫ്ലക്സ് സാന്ദ്രത നീരാവി മീറ്റർ 2 I ആമ്പിയർ ആയ ഒരു വിദ്യൂച്ഛക്തിവാഹകത്തിലെ ആർമേച്ചർ വൈദ്യുതി l ഓരോ വിദ്യുത്ശക്തിവാഹകത്തെയും നീളം അതായത് മീറ്റർ വിദ്യുത്ശക്തിവാഹകo സ്ഥാപിച്ചിരിക്കുന്ന ശരാശരി ആരം ആണ് r അതും മീറ്ററാണ് Z എന്നത് അർമേച്ചർ വിദ്യുത്ശക്തിവാഹകങ്ങളുടെ ആകെ എണ്ണത്തിന് തുല്യമാണ് ഇപ്പോൾ Ia അർമേച്ചർ വൈദ്യുതി ആണെങ്കിൽ I Iaa അതിനർത്ഥം I എന്നത് അർമേച്ചർ വൈദ്യുതി ആണ് അപ്പോൾ A എന്നത് സമാന്തര പാതകളുടെ എണ്ണമാണ് അതിനാൽ I Ia A രണ്ടാമത്തെ കാര്യം ഫ്ലക്സ് സാന്ദ്രത b ∅ a കൂടാതെ A സമാന്തര പാതകളുടെ എണ്ണമാണ് അതിനാൽ ഇത് ഏകതാനമായി വിതരണം ചെയ്യുന്നു അതിനാൽ ഇത് ഓരോ പാതയിലുമുള്ള വൈദ്യുതി ആയിരിക്കും ഇത് ∅ A ∅ ആണ് ഫ്ലക്സ് കൂടാതെ A എന്നത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ് ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾക്ക് അത് കാണാം ഇപ്പോൾ a ആരം r ലെ ക്രോസ് സെക്ഷണൽ ഫ്ലക്സ് പാത ആണ് അതിനർത്ഥം അത് ഒരു സിലിണ്ടറാണ് എന്നാണ് അതിന്റെ ഉപരിതല വിസ്തീർണ്ണം 2π rl ആണ് l ദൈർഘ്യമാണെങ്കിൽ r ആരം ആണ് ഫ്ലക്സ് പാത ആരം r ആണ് അതിനർത്ഥം അടിസ്ഥാനപരമായി ഇത് 2 π rl P ആണ് അതായത് ഓരോ ധ്രുവത്തിനും ഓരോ ഉപരിതല പ്രദേശം ആണ് ഉള്ളത് അതിനാലാണ് ഫ്ലൂക്സ് ക്രോസ് സെക്ഷണൽ വിസ്തീർണ്ണതയെ ആരം r ലെ ഫ്ലക്സ് പാത എന്ന് വിളിക്കുന്നത് അത് 2 π rl P ആയിരിക്കും 2 π rl അതാണ് അതിനാൽ ഇത് സിലിണ്ടർ ആണെന്ന് കരുതുന്നു അതിനാൽ ഉപരിതല പ്രദേശം ഇപ്പോൾ a ആരം r ലെ ക്രോസ് സെക്ഷണൽ ഫ്ലക്സ് പാത അതിനർത്ഥം അത് ഒരു സിലിണ്ടറാണ് അതിന്റെ ഉപരിതല വിസ്തീർണ്ണം 2π rl ആണ് l നീളമാണെങ്കിൽ r എന്നത് ആരം R ലെ ആരം ഫ്ലക്സ് പാത ആണ് അതിനർത്ഥം അടിസ്ഥാനപരമായി ഇത് 2 π rl P ആണ് അത് ഓരോ ധ്രുവത്തിനും ഉപരിതല വിസ്തീർണ്ണമാണ് അതിനാൽ ഫ്ലക്സ് ക്രോസ് സെക്ഷണൽ ഏരിയയെ നമ്മൾ വിളിക്കുന്നത് ആരം r ലെ ഒരു ഫ്ലക്സ് പാത ആണ് അത് P ന് 2 π rl ആയിരിക്കും അതിനാൽ ഇത് സിലിണ്ടർ ആണെന്ന് അനുമാനിക്കുന്നു അതിനാൽ ഉപരിതല പ്രദേശം അതിനാൽ എല്ലാം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ T Z∅L I r 2 π rl ലഭിക്കും P A ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ നമുക്ക് ഒരേ ചോദ്യം എഴുതാം T Z∅ Ia 2 π പി എ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 0 159 അപ്പോൾ Z∅ P Ia A 7 ഇത് 1 2 π ഇത് 0 എന്നാൽ T ഇത് ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ നമുക്ക് T K ∅ I അതായത് ∅ Ia നിരക്ക് 0 159 എന്ന് എഴുതാം ZP A ഒരു സ്ഥിരാങ്കമാണ് ZP I എന്നാൽ നിരക്ക് ഉണ്ട് ഇത് ഒരു ZP 2 π A എടുക്കുക ഇത് ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ ടോർക്ക് ഫ്ലക്സിന്റെയും ആർമേച്ചർ വൈദ്യുതിയുടെയും ഉൽപ്പന്നത്തിന് ആനുപാതികമാണ് ആ ഡിസി മെഷീൻ ഫ്ലക്സ് യഥാർത്ഥത്തിൽ ഫീൽഡ് വൈദ്യുതിയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഫ്ലക്സ് ഫീൽഡിന് ആനുപാതികമാണ് നമുക്ക് സീരീസ് മോട്ടോറുകൾ കാണാം അത് എങ്ങനെയെന്നും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിനർത്ഥം മറ്റൊരു കാര്യമാണ് എന്നാൽ ഫീൽഡ് വൈദ്യുതിക്ക് ആനുപാതികമായ ഫ്ലക്സ് ആണെന്നാണ് ഞാൻ പറയുന്നത് അതായത് ടോർക്ക് യഥാർത്ഥത്തിൽ ഫീൽഡ് വൈദ്യുതിയുടെയും ആർമേച്ചർ വൈദ്യുതിയുടെയും ഉൽപ്പന്നത്തിന് ആനുപാതികമാണ് ∅ എന്നതിന് പകരം അത് If ആണ് അതിനാൽ ഇപ്പോൾ ഡിസി മോട്ടോറിന്റെ തുല്യമായ സർക്യൂട്ട് ഇപ്പോൾ ഈ ഡയഗ്രം വരച്ചിരിക്കുന്നത് ഇത് ഒരു പ്രത്യേകം ഉത്തേജിപ്പിക്കുന്ന ഡിസി മെഷീൻ മോട്ടോറാണ് അതിനാൽ വെവ്വേറെ ആവേശം എന്ന് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഫീൽഡിന് മറ്റൊരു വിതരണമാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു ഉറവിടത്തിൽ നിന്ന് ഡിസി വിതരണം ഫീൽഡിന് പ്രത്യേകം നൽകുന്നു ഇത് മോട്ടോർ ആണ് ഇതാണ് സപ്ലൈ വോൾട്ടേജ് ഇത് വളരെ ചെറുതാണ് ആർമേച്ചർ റെസിസ്റ്റൻസ് ra Eb എന്നത് ബാക്ക് emf ആണ് ധ്രുവത ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു Ia എന്നത് IL അർമേച്ചർ കറന്റ് ലോഡ് കറന്റ് r 0 എന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ DC മെഷീൻ ആരംഭിക്കുമ്പോൾ ആദ്യ വർഷവും ഒരു പക്ഷേ DC മെഷീൻ ആരംഭിക്കുമ്പോഴെല്ലാം ഇലക്ട്രിക്കൽ ലാബ് ചെയ്യും അത് R പരമാവധി സ്ഥാനത്ത് ആയിരിക്കണം കാരണം നമ്മൾ ബാക്ക് ഓൺ ചെയ്താൽ ഉടൻ emf ഉണ്ടാകില്ല ഏറ്റവും കുറഞ്ഞ മൂല്യത്തിൽ അത് വളരെ ചെറുതാക്കിയാൽ DC മോട്ടോറിന്റെ അർമേച്ചർ പ്രതിരോധം വളരെ ചെറുതാണ് അതിനാൽ ഇവിടെ എവിടെയെങ്കിലും ഫ്യൂസ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഒരു വലിയ കറന്റ് ഒഴുകുകയും ഫ്യൂസ് വീശുകയും ചെയ്യും അതിനാൽ ആരംഭിക്കുന്ന സമയത്ത് ഈ പ്രതിരോധം പരമാവധി ആയിരിക്കേണ്ടത് തുടർന്ന് വിതരണം ആരംഭിക്കുക പിന്നെ മോട്ടോർ അത് സാവധാനം തുടങ്ങും എന്നിട്ട് തിരികെ ഇഎംഎഫ് വികസിപ്പിക്കും ഇപ്പോൾ അതിനു ശേഷം ഞാൻ വേഗത പതുക്കെ എടുക്കുകയും പതുക്കെ പ്രതിരോധം കുറയ്ക്കുകയും ഈ പ്രതിരോധം 0 ലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആരംഭിക്കുമ്പോൾ മെഷ് ഉള്ളപ്പോൾ ഈ സ്വിച്ച് തുറന്നിരിക്കുന്നു ഈ പ്രതിരോധം പരമാവധി ഈ സ്വിച്ച് തുറന്നിരിക്കും നമ്മൾ ഈ പ്രതിരോധം 0 ആയി മുറിക്കുമ്പോൾ സമ്പർക്കം കാരണം ആയിരിക്കാം അതിനാൽ ഈ സ്വിച്ച് അടച്ചതിനുശേഷം ചെറിയ പ്രതിരോധം ഉണ്ടാകാം അങ്ങനെ പാത ഇതുപോലെയാകും അതിനാൽ ഇവയിൽ നിന്ന് ഇത് പൂർണ്ണമായും ഓഫാണ് അത് അടച്ചാലുടൻ ഈ സർക്യൂട്ടിൽ സർക്യൂട്ട് പ്രതിരോധമോ ബാഹ്യമോ ഇല്ലാത്ത പ്രതിരോധം നൽകില്ല അതിനാൽ അൽപ്പം അടയ്ക്കുമ്പോൾ വേഗം കണ്ടെത്താനാകും വേഗത ചെറുതായി വർദ്ധിക്കും കാരണം ഇവിടെ കോൺടാക്റ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നത് എന്തുകൊണ്ടായിരുന്നു അതിനാലാണ് എസ്പി എസ്ടി അത് അടയ്ക്കാൻ കഴിയുന്ന സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ഉപയോഗിക്കുന്നത് അതായത് R പരമാവധി ഉള്ളിടത്ത് ഇത് ആരംഭിക്കുക തുടർന്ന് സപ്ലൈ ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ടർ സംബന്ധിച്ച് ഈ കോഴ്സിൽ പഠിക്കുന്നില്ല ഡിസി മെഷീൻ സ്റ്റാർട്ടർ പഠിക്കില്ല എന്നാൽ വേഗത വേഗത്തിലാകുമ്പോൾ പതുക്കെ ഉയരും പതുക്കെ പ്രതിരോധം കുറയ്ക്കുകയും പ്രതിരോധം r ആകുന്നത് 0 ആകുകയും ചെയ്യും ഒരിക്കൽ ആർ 0 ആണ് പ്രവർത്തിക്കുന്ന അവസ്ഥ ഈ SP ST സ്വിച്ച് അടയ്ക്കുക അങ്ങനെ ഇത് പൂർണ്ണമായും അറ്റുപോകും ഇതാണ് പാത അതിനാൽ ഇത് ഡിസി മോട്ടോർ എന്ന് വിളിക്കുന്ന പ്രത്യേകമായി ആവേശഭരിതമാണ് കൂടാതെ വി ടെർമിനൽ വോൾട്ടേജും ഇബി ബാക്ക് ഇഎംഎഫും ആണ് അതിനാൽ ഈ കേസിലും ഇത് Rf ആണ് Rf എന്നത് ഫീൽഡ് പ്രതിരോധമാണ് ഇതും വ്യത്യാസപ്പെടാവുന്ന ഫീൽഡാണ് ഇത് ഫീൽഡ് റെസിസ്റ്റൻസ് Rf ആണ് ഇത് ഫീൽഡ് ഫീൽഡ് റെസിസ്റ്റൻസ് Rf ആണ് ഇത് ചില പ്രദേശത്തെ അധിക പ്രതിരോധമാണ് ഇതാണ് Rf എന്ന് വിളിക്കുന്നത് ഇത് ഫീൽഡ് റണ്ണിംഗും ഫീൽഡ് റെസിസ്റ്റൻസ് Rf ഉം ഇതാണ് വിതരണവും അതിനാൽ ഡിസി മെഷീനിന് ra എന്നത് വളരെ ചെറുതാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ലബോറട്ടറിയിലെ ഒരു ഡി സി മെഷീന്റെ ആർമേച്ചർ പ്രതിരോധം എങ്ങനെ അളക്കാനാകും ഇത് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അതിനാൽ Ia അർമേച്ചർ കറന്റ് ലോഡ് കറന്റ് കൂടാതെ Eb V Ia R ra തീർച്ചയായും പ്രവർത്തിക്കുന്ന അവസ്ഥ R 0 അപ്പോൾ ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ ഇതിൽ KVL എന്ന് വിളിക്കുന്നു അപ്പോൾ എല്ലാം എളുപ്പത്തിൽ അടയാളപ്പെടുത്താവുന്ന ധ്രുവത കൈവരിക്കും അത് ഉണ്ടാക്കാൻ കഴിയും Eb V Ia ra R ra എന്നാൽ പ്രവർത്തിക്കുന്ന അവസ്ഥ R 0 ഇപ്പോൾ ഇത് എ ആണെങ്കിൽ ഇതിനെയാണ് ഷണ്ട് മോട്ടോർ എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ സാഹചര്യത്തിൽ ഷണ്ട് ഫീൽഡ് ഇവിടെയാണ് ഇത് ഫീൽഡ് വിൻഡിംഗ് ആണ് ഇത് Rf ഇതാണ് Rf അതിനാൽ ഇവിടെ SPST ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ അത് ഇവിടെയും ഇടാം അതിനാൽ ഇവിടെയും ഇത് ഇടാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ കാണിച്ചിട്ടില്ല ഞാൻ അത് ഇവിടെ കാണിച്ചില്ല ഞാൻ ഇവിടെ കാണിച്ചില്ല അത് ഇടാം അതിനാൽ ഞാൻ ഇപ്പോൾ അത് വൃത്തിയാക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിലും തത്ത്വചിന്ത അതേപടി നിലനിൽക്കും മെഷീനിലേക്കും ഷണ്ട് ഫീൽഡിലേക്കും സപ്ലൈ നൽകുന്ന കോൾ നൽകുന്ന sa ൽ നിന്ന് ഇവിടെ സാവധാനത്തിൽ തുടരുക കാരണം അവ സമാന്തരമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഫീൽഡ് റെസിസ്റ്റൻസ് ഷണ്ട് ഫീൽഡ് ആണ് ഇത് Rf ആണ് ഇത് Rf ആണ് അതിനാൽ ബാഹ്യ പ്രതിരോധം Rf ആണ് കാരണം Rf ചേർക്കുന്നതിലൂടെ ഈ പ്രതിരോധം വ്യത്യാസപ്പെടാം അതിനാൽ ഈ ഫീൽഡ് കറന്റ് നിയന്ത്രിക്കാൻ കഴിയും എങ്കിൽ ഫീൽഡ് കറന്റ് കൺട്രോളിംഗ് എന്നാൽ നമ്മൾ ഫ്ലക്സ് നിയന്ത്രിക്കുന്നു എന്നാണ് അതിനാൽ എന്തായാലും R 0 പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ അതിനാൽ Rf Rf ന് മേൽ If V ആണെങ്കിൽ ഇതാണ് നിലവിലെ വോൾട്ടേജ് എങ്കിൽ ഇത് ഒരു സമാന്തര സർക്യൂട്ട് ആണ് അതിനാൽ If Rf Rf ന് മുകളിൽ ആയിരിക്കും കെവിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ സവേ പ്രയോഗിക്കുകയാണെങ്കിൽ അത് എനിക്ക് ലഭിക്കും Eb V Ia R ra എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ r 0 ഇവിടെ കെസിഎൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രയോഗിച്ചാൽ ഇത് അർമേച്ചർ കറന്റ് ആണ് ഇത് ലൈൻ കറന്റ് ആണ് ഇതാണ് ഫീൽഡ് കറന്റ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ പോയിന്റിൽ ഈ നോട്ടം പ്രയോഗിച്ചാൽ ഞങ്ങൾ കെസിഎൽ പ്രയോഗിക്കുന്നു ഈ സമയത്ത് കെസിഎൽ പ്രയോഗിക്കുക Ia IL If അതിനാൽ ഇത് ലളിതമായ കാര്യമാണ് അതിനാൽ സീരീസ് യഥാർത്ഥത്തിൽ സീരീസ് വൈൻഡിങ്ങ് യഥാർത്ഥത്തിൽ അർമേച്ചറുമായുള്ള പരമ്പരയിലാണ് അതിനാൽ ആ സന്ദർഭത്തിൽ അർമേച്ചർ കറന്റ് ലോഡ് കറന്റ് സീരീസ് മോട്ടോറിനുള്ള ഫീൽഡ് കറന്റ് ഇവിടെ ഫയൽ ചെയ്ത സീരീസ് അർമേച്ചറിനൊപ്പം സീരീസിലാണ് ഇത് സീരീസിലാണ് ഇത് ഇഎംഎഫും തിരിച്ചും അതിനാൽ ഇത് സീരീസ് മോട്ടോർ ആണ് അതിനാൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് ആർ എസ് ആണ് ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ കെ വി എൽ എന്ന് വിളിക്കും അതിനാൽ Eb V Ia R S ra സീരീസ് ഫീൽഡ് പ്രതിരോധം നമുക്ക് ലഭിക്കും സീരീസ് ഫീൽഡിന്റെ വസ്തുത എങ്ങനെ നിയന്ത്രിക്കാം ഇത് ഈ കോഴ്സിൽ ഇതിൽ പഠിക്കാനാകില്ല ചില അടിസ്ഥാനകാര്യങ്ങൾക്ക് ആദ്യ വർഷ തലത്തിൽ അതിനപ്പുറം കഴിയില്ല അതിനാൽ ഇത് Eb V Ia R S ra അതിനാൽ അടുത്തതായി ഒരു ചെറിയ ഉദാഹരണം എടുക്കുക 230 വോൾട്ട് ഷണ്ട് മോട്ടോർ 800 ആർപിഎമ്മിൽ ലോഡില്ലാതെ പ്രവർത്തിക്കുകയും 5 ആമ്പിയർ എടുക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക അർമേച്ചറിന്റെയും ഫീൽഡ് വിൻഡിംഗിന്റെയും പ്രതിരോധം യഥാക്രമം 0 25 Ω ഉം 230 are ഉം ആണ് മോട്ടോർ ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ വേഗത കണക്കാക്കുക പ്രധാനത്തിൽ നിന്ന് 60 ആമ്പിയർ എടുക്കുക ഇതാണ് പ്രശ്നം അതിനാൽ ഒരു ലോഡ് അവസ്ഥയും മറ്റൊരു ലോഡിംഗും പറയുക അത് ലോഡ് ചെയ്യുമ്പോൾ മറ്റൊരാളെ വിളിക്കുന്നത് 60 ആമ്പിയർ എടുക്കുന്നു എന്നാൽ ഒരു ലോഡിലും ഇത് 5 ആമ്പിയർ എടുക്കുന്നു 2 വ്യവസ്ഥകളും മറ്റ് കാര്യങ്ങളും നൽകിയിരിക്കുന്നു അതിനാൽ ഈ വേഗത നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ലോഡ് അവസ്ഥകളല്ല ഇത് ഷണ്ട് മോട്ടോർ സർക്യൂട്ട് ഡയഗ്രമാണ് ഇത് IL 0 ആണ് ഇതാണ് If കാരണം 230 വോൾട്ട് ഒരു വോൾട്ടേജ് വിതരണ വോൾട്ടേജ് V ആണ് Rf 230 ന് നൽകിയിരിക്കുന്നു here ബാഹ്യ പ്രതിരോധം ഇവിടെ കാണിച്ചിട്ടില്ല Ia 0 ഇതിനെ Ia 0 എന്ന് വിളിക്കുന്നു റയ്ക്ക് 0 2 given നൽകി ലോഡ് സ്പീഡ് 800 ആർപിഎം ഇല്ല ഇതാണ് ബാക്ക് ഇഎംഎഫ് അതിനാൽ ഫീൽഡ് കറന്റ് if 230 ന് Rf 230 എന്നത് വിതരണമാണ് 230 Rf അതിനാൽ 230230 എന്നത് 1 ആമ്പിയർ ആണ് അതിനാൽ IL 0 ന് 5 ആമ്പിയർ നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ അത് ലോഡ് ഇല്ലാത്ത കോൾ നൽകുകയും 5 ആമ്പിയർ എടുക്കുകയും ചെയ്യുന്നു ഇത് ലൈനിൽ നിന്ന് 5 ആമ്പിയർ കറന്റ് ഓടിക്കുന്നു അതിനാൽ IL 0 5 ampere അതിനാൽ Ia 0 IL 0 എങ്കിൽ അങ്ങനെ 5 1 അങ്ങനെ I0 4 ampere അതിനാൽ ഈ സർക്യൂട്ട് മാത്രം Eb 0 V ra Ia 0 ബാക്ക് e mf കണ്ടെത്തുക അതിനാൽ Eb 0 ആണ് 230 ra 0 25 Ia 0 4 അതിനാൽ Eb 0 229 വോൾട്ട് ഇപ്പോൾ ഇത് ലോഡ് അവസ്ഥയിലല്ല ഇപ്പോൾ ഇത് ലോഡ് ചെയ്യുമ്പോൾ ആ tiit സർക്യൂട്ട് 60 ആമ്പിയറിന്റെ കറന്റ് കറങ്ങുന്നു ഇതാണ് Ia 1 ra എന്നത് 0 25 is ആണ് വേഗത എത്രയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടോ ഇത് 230 Ω ആണ് അതായത് ഫീൽഡ് കറന്റ് എന്നത് 230 ന് 231 ആമ്പിയർ

അതിനാൽ ലോഡ് അല്ലെങ്കിൽ പൂർണ്ണ ഈ ലോഡ് ഫീൽഡ് കറന്റ് അതേപടി നിലനിൽക്കും വീണ്ടും ഇത് 1 ആമ്പിയർ ആണ് അതായത് ഫ്ലക്സ് സ്ഥിരമായി നിലനിൽക്കുന്നു രണ്ട് കേസുകളും ഫീൽഡ് കറന്റ് സ്ഥിരമായതിനാൽ ഫ്ലക്സ് സ്ഥിരമായി തുടരും അതിനാൽ Ia 1 IL ആയിരിക്കും അങ്ങനെ 59 ആമ്പിയർ 60 1 അതിനാൽ Eb 1 V ആകും Ia 1 ra 0 അതിനാൽ ഞാൻ നേരിട്ട് എഴുതുന്നത് ഇതിന് Eb 1 215 25 വോൾട്ട് ലഭിക്കും ഇത് ലഭിക്കും അതിനാൽ ഇത് ലോഡുചെയ്ത അവസ്ഥയിലാണ് ഇത് രണ്ട് പ്രത്യേക സർക്യൂട്ട് വരയ്ക്കുന്ന സർക്യൂട്ട് ആണ് ഒരു ഡിസി സർക്യൂട്ടിന് ഈ അവസ്ഥകളെല്ലാം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ പരിഹരിക്കും അപ്പോൾ ഇതിനുശേഷം എന്തു ചെയ്യും ഈ Eb തുല്യമാണെന്ന് നമുക്കറിയാം ∅ Z N 60 P a K ∅ n എന്നാൽ രണ്ട് കേസുകളിലും സ്ഥിരമാണെങ്കിൽ സ്ഥിരമാണെങ്കിൽ ഫ്ലക്സ് സ്ഥിരമായതാണെങ്കിൽ Eb 0 Eb 1 ന് ∅0 n 0 ∅1 n ന് മുകളിൽ 1 എഴുതാം കാരണം Eb 0 K ∅ 0 n 0 എന്ന ഒരു സമവാക്യം എഴുതാൻ കഴിയുന്ന അവസ്ഥ ഇതാണ് മറ്റൊരു സമവാക്യത്തിന് Eb 1 K ∅ n1 n 1 ഇങ്ങനെ എഴുതാം കേസുകൾ നിലവിലുള്ളത് 1 ആമ്പിയർ ആണ് അതിനാൽ ∅0 ∅1 അതിനാൽ അത് ∅0 ∅1 ആണെങ്കിൽ Eb 0 കണക്കുകൂട്ടിയത് 229 Eb 1 ഞങ്ങൾ 215 25 n 0 കണക്കുകൂട്ടി 800 നമുക്ക് വിഭജിച്ച n 1 വേഗത അറിയാം അതിനാൽ n 1 752 rpm ഇതാണ് ഉത്തരം ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ഞങ്ങൾ പിന്നീട് 3 അല്ലെങ്കിൽ 4 എടുക്കും ഇപ്പോൾ ഡിസി മോട്ടോറുകളുടെ സ്വഭാവം ഇപ്പോൾ ആദ്യം ഒരു ടോർക്ക് കറന്റ് സ്വഭാവമാണ് DC മോട്ടോറിന് നമുക്ക് ടോർക്ക് K ∅ Ia അറിയാം ഇപ്പോൾ ഒരു ഷണ്ട് മോട്ടോറിന്റെ കാര്യത്തിൽ ഫ്ലക്സ് ∅ ഏകദേശം സ്ഥിരമായതും ടോർക്ക് Ia യ്ക്ക് ആനുപാതികവുമാണ് അതിനാലാണ് ഡിസി ഷണ്ട് മോട്ടോറിനുള്ള ഫ്ലക്സ് സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ ഞാൻ എടുത്ത മുൻ ഉദാഹരണം ഫീൽഡ് വിതരണ വോൾട്ടേജ് കൂടുതൽ അസ്ഥിരമായി തുടരുന്നു ഫീൽഡ് പ്രതിരോധം കൂടുതലോ കുറവോ സ്ഥിരമായി നിലനിൽക്കുക അതിനാൽ ഫ്ലക്സ് സ്ഥിരമായി നിലനിൽക്കും കാരണം ഫീൽഡ് കറന്റ് സ്ഥിരമായിരിക്കും എന്നതിനർത്ഥം ഫ്ലക്സ് സ്ഥിരമാണ് എന്നാണ് അതിനാൽ ടോർക്ക് യഥാർത്ഥത്തിൽ Ia യ്ക്ക് ആനുപാതികമാണ് അതായത് ഇത് ഏതാണ്ട് നേർരേഖ സ്വഭാവമാണ് അതിനാൽ ടോർക്കിന്റെ വക്രതയുണ്ട് നിലവിലെ പ്രതീകം പ്രായോഗികമായി ഒരു നേർരേഖയാണ് ഇപ്പോൾ സീരീസ് മോട്ടോറിന്റെ കാര്യത്തിൽ പരമ്പരയിലെ പരമ്പര ഫീൽഡ് ആയതിനാൽ അർമേച്ചർ കറന്റ് ഫീൽഡ് കറന്റ് അതായത് ഫ്ലക്സ് Ia യ്ക്ക് ആനുപാതികമാണ് കാരണം ടോർക്ക് ടോർക്ക് K ∅ Ia എന്ന് കരുതുക സീരീസ് മോട്ടോർ ഫ്ലക്സ് യഥാർത്ഥത്തിൽ Ia ലേക്ക് പ്രൊഫഷണൽ ആയതിനാൽ പരമ്പര മോട്ടോർ Ia If സീരീസ് ഫീൽഡ് അർമേച്ചറുമായി പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ Ia If അതായത് Ia യ്ക്ക് ആനുപാതികമായ ടോർക്ക് എന്നാൽ Ia 2 ന് ആനുപാതികമായ ടോർക്ക് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എഴുതിയത് അതിനാലാണ് ടോർക്ക് Ia2 ന് ആനുപാതികമാകുന്നത് അതിനാൽ നമ്മൾ ടോർക്ക് സ്വഭാവം ആണ് വരച്ചതെങ്കിൽ ഇത് Ia അർമേച്ചർ ശരിയാണ് ഷണ്ട് മോട്ടോറിന് ഇത് നേർരേഖയാണ് ഇത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു സീരീസ് മോട്ടോറിന് ഇത് പരാബോളയാണ് അതിനാൽ ഇതാണ് ടോർക്ക് കറന്റ് ക്യാരക്ടർ സീരീസ് മോട്ടോറിന്റെയും ഷണ്ട് മോട്ടോറിന്റെയും നിലവിലെ സവിശേഷതകൾ ഇപ്പോൾ രണ്ടാമത്തേത് സ്പീഡ് കറന്റ് സ്വഭാവമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും അറിയാം emf K ∅ n യഥാർത്ഥത്തിൽ n തുല്യമാണ് നമ്മൾ മൂലധനം N ഉപയോഗിച്ചിരിക്കാം പക്ഷേ n ചെറിയ n മൂലധനം N ഇപ്പോൾ ഒരു ഷണ്ട് മോട്ടോറിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് തിരികെ അറിയാം emf V Ia ra പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അത് അറിയാം അതിനാൽ ഇത് Eb V Ia ra ആണ് അതിനാൽ Eb K ∅ n V Ia ra അതിനർത്ഥം n നമുക്ക് K V Ia ra write എഴുതാം അവിടെ K 1 ന് K അതിനാൽ ഒരു ഷണ്ട് മോട്ടോറിൽ ഫ്ലക്സ് more കൂടുതലോ കുറവോ പ്രായോഗികമായി സ്ഥിരമാണ് ഇത് കൂടുതൽ അല്ലെങ്കിൽ നിരന്തരമായ സ്ഥിരാങ്കമാണ് നമ്മൾ ഫീൽഡ് കറന്റ് കൂടുതൽ അസ്ഥിര സ്ഥിരത കാണുന്നു അതിനാൽ ഫ്ലൂക്സ് സ്ഥിരമായതിനാൽ ഫ്ലക്സ് ഒരു സ്ഥിരാങ്കമാണ് അതിനാൽ Ia ra ഡ്രോപ്പ് വളരെ ചെറുതാണ് കാരണം റാ യഥാർത്ഥത്തിൽ ഫോറ മെഷീൻ വളരെ ചെറുതാണ് DC മെഷീൻ വളരെ ചെറുതാണ് അതിനാൽ ഈ Ia ra ഡ്രോപ്പ് V യുടെ 3 മുതൽ 6 ശതമാനം വരെ വളരെ ചെറുതാണ് അതിനാൽ ലോഡ് മുതൽ ഫുൾ ലോഡ് വരെയുള്ള വേഗത ഒരേ ക്രമത്തിലാണ് അതിനാൽ ഡിസി ഷണ്ട് മോട്ടോർ ഒരു സ്ഥിരമായ സ്പീഡ് മോട്ടോറായി കണക്കാക്കപ്പെടുന്നു ചിലപ്പോൾ അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഡിസി ഷണ്ട് മോട്ടോർ ഒരു സ്ഥിരമായ സ്പീഡ് മോട്ടോർ ഇതാണ് കാരണം അതിനാൽ ലോഡിന്റെ വർദ്ധനയോടെ ഇത് വേഗത കുറയുന്നു അതിനാൽ ഒരു ശ്രേണി മോട്ടോറോഗെയിൻ n K V Ia ra R S എന്നിവയിൽ R S ചേർക്കേണ്ട സീരീസ് ഫീൽഡ് പ്രതിരോധമാണ് എന്നാൽ പരമ്പരയിൽ മോട്ടോർ I Ia യ്ക്ക് ആനുപാതികമാണ് കാരണം Ia ഒന്നുമല്ല എന്നാൽ അർമേച്ചർ കറന്റ് സീരീസ് മോട്ടോറിലെ ഫീൽഡ് കറന്റ് എന്നാൽ അതുകൊണ്ടാണ് Ia സീരീസ് മോട്ടോർ Ia Ia എന്നിവയ്ക്ക് ആനുപാതികമായി n K ഇരട്ട V Ia ra R S Ia എന്ന് എഴുതാൻ കഴിയുന്നത് അതിനാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് Ia യുടെ ആനുപാതികമാണെങ്കിൽ ∅ K 1 Ia എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ പകരം വയ്ക്കുകയാണെങ്കിൽ K 1 Ia അതിനാൽ K K 1 K അതിനാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് വരുന്നത് n K ഇരട്ട Ia ra R S ന് മേൽ ഈ സ്ഥിരമായ V അതിനാൽ ഈ ഭാഗം സ്ഥിരമായതാണ് ഇത് VI യിൽ ആണ് ലോഡ് മാറുകയാണെങ്കിൽ ആർമേച്ചർ കറന്റ് മാറും ആർമേച്ചർ കറന്റ് ഫീൽഡ് കറന്റ് ആകും അതിനാൽ ഫ്ലക്സും മാറും അതിനാൽ ലോഡിനൊപ്പം ∅ ഉം Ia മൂല്യവും I Ia ന് ആനുപാതികമാണ് ലോഡ് വർദ്ധിക്കുകയാണെങ്കിൽ ലോഡ് കറന്റിനൊപ്പം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് Ia വർദ്ധിക്കുന്നു അങ്ങനെ V Ia കുറയുന്നു കാരണം Ia കൂടുകയാണെങ്കിൽ V Ia കുറയും അതിനാൽ ലോഡ് വേഗത കൂടുന്നതിനനുസരിച്ച് സീരീസ് മോട്ടോറിന് കുറയുന്നു അതിനാൽ സീരീസ് മോട്ടോറിൽ നിന്ന് ലോഡ് പൂർണ്ണമായും നീക്കം ചെയ്താൽ ∅ വളരെ ചെറുതാകും അത് Ia ആണ് അതിനാൽ Ia യും കുറയും അതിനാൽ V Ia വളരെ വലുതും വേഗത വളരെ ഉയർന്നതുമാണ് അതിനാൽ സീരീസ് മോട്ടോറിൽ നിന്ന് ലോഡ് പൂർണ്ണമായും നീക്കംചെയ്യുന്നത് അപകടകരമാണ് അതിനാൽ ഒരു സീരീസ് മോട്ടോർ എല്ലായ്പ്പോഴും ലോഡിൽ ആരംഭിക്കണം അതിനാൽ സീരീസ് മോട്ടോർ ലോഡ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല കാരണം ഈ പ്രദേശം മാത്രം അതിനർത്ഥം സീരീസ് മോട്ടോർ ആരംഭിക്കുമ്പോഴെല്ലാം കണക്റ്റിംഗ് ലോഡിൽ ആരംഭിക്കണം അല്ലാത്തപക്ഷം സീരീസ് മോട്ടോറിനായി ലോഡ് പൂർണ്ണമായും നീക്കംചെയ്യുന്നത് അപകടകരമാണ് അങ്ങനെയാണെങ്കില് അതായത് ഷണ്ട് മോട്ടോറിന് ഇത് സ്പീഡ് കറന്റ് സ്വഭാവമാണ് സീരീസ് മോട്ടോറിന് ഇത് സ്പീഡ് കറന്റ് സ്വഭാവമാണ് ഇപ്പോൾ മറ്റൊന്ന് സ്പീഡ് ടോർക്ക് സ്വഭാവമാണ് അതിനാൽ ഈ സാഹചര്യത്തിലും ഷണ്ട് മോട്ടോറിനുള്ള സ്പീഡ് ടോർക്ക് സവിശേഷതകൾ കണ്ടെത്തും ഇവിടെ ഷണ്ട് മോട്ടോറിനുള്ള സ്പീഡ് കറന്റ് സ്വഭാവം മിക്കവാറും സമാനമാണ് അതിനാൽ ഡിസി മോട്ടോറുകളുടെ സ്പീഡ് കറന്റ് ടോർക്ക് കറന്റ് സവിശേഷതകൾ വികസിപ്പിച്ചെടുത്താൽ ഓരോ ഘട്ടത്തിലെയും വേഗതയും ടോർക്കും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിയും ഷണ്ടിന്റെ കാര്യത്തിൽ മോട്ടോർ വേഗത ചെറുതായി കുറയുകയും പൂർണ്ണ ലോഡ് ലഭിക്കുകയും ചെയ്യുന്നു മോട്ടോർ ഒരു സ്ഥിരമായ സ്പീഡ് മോട്ടോർ ആയി കണക്കാക്കാം ഇത് ഡിസി മോട്ടോറിന്റെ സ്പീഡ് ടോർക്ക് സവിശേഷതകളാണ് അതുപോലെ ഒരു സീരീസ് മോട്ടോറിന്റെ കാര്യത്തിൽ സ്പീഡ് ടോർക്ക് കർവിന്റെ സ്വഭാവം സ്പീഡ് കറന്റ് കർവിന് സമാനമാണ് അതിനാൽ ഈ രണ്ടും ഈ രണ്ടും ഞാൻ ഇവിടെ മനഃപൂർവം നൽകിയില്ല ഞാൻ ഇവിടെ ഗണിതശാസ്ത്രം 1 അല്ലെങ്കിൽ 2 സമവാക്യം നൽകിയില്ല ഞാൻ വിശദീകരിച്ച മറ്റ് രണ്ടെണ്ണവും ഈ രണ്ടിന്റെയും സ്വഭാവം ഒന്നുതന്നെയാണ് അതിനാൽ അടുത്തത് ഒരു ഉദാഹരണമാണ് അതിനാൽ സ്ഥിരമായ ഒരു പ്രധാന ഫീൽഡ് ഡ്രൈവ് ലോഡ് ഉള്ള 230 വോൾട്ട് ഷണ്ട് മോട്ടോർ അതിന്റെ ടോർക്ക് വേഗതയുടെ ക്യൂബിന് ആനുപാതികമാണ് 600 rpmൽ പ്രവർത്തിക്കുമ്പോൾ 30 ആമ്പിയർ ആവശ്യമാണ് 10 Ω പ്രതിരോധം അതിന്റെ അർമേച്ചറുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്ന വേഗത കണ്ടെത്തുക അതിനാൽ നോക്കൂ ഇതാണ് സർക്യൂട്ട് ഡയഗ്രം സ്ഥിരമായ ഒരു പ്രധാന ഫീൽഡ് ഉള്ള 230 വോൾട്ട് ഷണ്ട് മോട്ടോർ ക്യൂബിന്റെ വേഗതയ്ക്ക് ആനുപാതികമായ ടോർക്ക് ഒരു ലോഡ് നീക്കുന്നു അതായത് ടോർക്ക് n ക്യൂബിന് ആനുപാതികമാണ് 600 ആർപിഎമ്മിൽ ചലിക്കുമ്പോൾ അതിന് 30 ആമ്പിയർ ആവശ്യമാണ് അത് ഓടുന്ന വേഗത കണ്ടെത്തേണ്ടതുണ്ട് അത് 10 Ω പ്രതിരോധം എടുക്കുന്നു അത് അർമേച്ചറുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് ഇതാണ് ആദ്യ സർക്യൂട്ടിനു Eb 1 ബാക്ക്em അതിനാൽ 30 ആമ്പിയർ ചലിക്കുന്നു n 1 ന് 60 600 rpm ഉം V 230 volt ഉം നൽകിയിരിക്കുന്നു അതിനാൽ n 1 ന് Ia നൽകുമ്പോൾ 1 എന്നത് 30 ആമ്പിയർ ആണ് കൂടാതെ n 1 n 2 x എന്ന് അനുവദിക്കുക n 1 എന്നത് ആദ്യത്തെ ഘട്ടം 600 rpm ന്റെ വേഗതയാണ് ഈ അനുപാതം n 1 n 2 x എടുക്കുന്നു നമുക്കറിയാം Eb K ∅ n രണ്ടാമത്തെ സർക്യൂട്ട് ആണ് 10 ഓവർ പ്രതിരോധം ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് രണ്ടാമത്തെ കേസിൽ Ia 2 എന്തായിരിക്കും n 2 എന്തായിരിക്കും ഇത് 230 വോൾട്ട് ആണ് ഇത് ഫീൽഡ് കറന്റ് ആണെങ്കിൽ ഇപ്പോൾ എന്നാൽ ഫീൽഡ് സ്ഥിരമാണ് അതിനാൽ ആ സാഹചര്യത്തിൽ ∅1 ∅ 2 ∅ Eb 1 ന് ശേഷം Eb 2 ന് ∅1 n 1 ∅ 2 ആയിരിക്കും അതിനാൽ Eb 1 ന് Eb 2 n 1 ന് n 2 x x എന്ന് പറയാം അതിനാൽ ചിത്രത്തിൽ നിന്ന് ഒരു Eb 1 230 വോൾട്ട് ra അവഗണിക്കപ്പെടുന്നു അതിനാൽ ഈ ചിത്രത്തിൽ നിന്ന് emf 230 വോൾട്ട് അവഗണിക്കപ്പെടുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ Eb 1 230 വോൾട്ട് ആയിരിക്കും ചിത്രം b ൽ നിന്ന് Eb 2 230 10 Ia 2 ആയിരിക്കും കാരണം 10 Ω പ്രതിരോധം ചേർത്തിരിക്കുന്നു അതിനാൽ ഇത് 2 230 10 Ia 2 ആയിരിക്കും ഈ Eb 1 നെ Eb 2 ന് വിഭജിക്കുക 2 230 ന് 230 10 Ia 2 x എന്ന് പറയുക കാരണം Eb 1 ന് Eb 2 n 1 ന് n 2 x സമവാക്യം 2 ൽ നിന്ന് അതിനർത്ഥം ക്രോസ് ഗുണിച്ച് ടോർക്ക് വേഗതയുടെ ക്യൂബിന് ആനുപാതികമാണ് അതിനാൽ നമുക്ക് T 1 to T 2 n 1 n 2 ക്യൂബും x ക്യൂബ് എന്ന് എഴുതാം അതിനാൽ T 1 T 2 x ക്യൂബ് അതിനാൽ ആദ്യത്തെ വ്യവസ്ഥയും ഇത് രണ്ടാമത്തെ അവസ്ഥയുമാണ് ടോർക്ക് K ∅ Ia അതിനാൽ നമുക്ക് T 1 T 2 ∅1 Ia1 ഇത് ∅ 2 Ia Ia 2 എന്ന് എഴുതാം എന്നാൽ ഷണ്ട് മോട്ടോറിന് ഫ്ലക്സ് സ്ഥിരമായി തുടരും അതിനാൽ ∅1 ∅ 2 ഇവിടെ ∅1 ∅ 2 അർത്ഥമാക്കുന്നത് അത് Ia 1 I 2 ആയിരിക്കും അതായത് T 1 T 2 30 Ia 2 x ക്യൂബ് അതിനാൽ 30 Ia 2 x3 xക്യൂബ് അതിനാൽ Ia 2 30 x ക്യൂബ് ഇത് സമവാക്യം 5 ആണ് ഇവിടെ ഈ Ia2 പകരം വയ്ക്കണം നമ്മൾ ഈ സമവാക്യം മാറ്റിസ്ഥാപിച്ചാൽ x ക്യൂബ് x 2 30 ന് 23 0 ആകും അതിനാൽ ഇത് ഒരു ക്യൂബിക് സമവാക്യമാണ് ഇതിന് 3 പരിഹാരങ്ങൾ ഉണ്ടാകും അതിനാൽ ഇത് ശ്രമിക്കുമ്പോൾ നമുക്ക് x 1 55 ലഭിക്കും അതിനർത്ഥം n 1 ന് n 2 x അതിനാൽ n 1 എന്നത് 60 600 rpm ഉം x 1 55 ഉം ആണ് അതിനാൽ n 2 എന്നത് 387 rpm ആയിരിക്കും n 2 ന്റെ ഉത്തരം ഇതാണ് കൂടാതെ Ia 2 ന് Ia 2 I 1 x x ക്യൂബിൽ ലഭിക്കും അതിനാൽ 30 മുതൽ 1 55 ക്യൂബുകൾ വരെ Ia 2 ഏകദേശം 8 ആമ്പിയർ ആയിരിക്കും ഈ സമവാക്യം littlEbit ഉം പിശക് പരീക്ഷണവും അവബോധത്തിൽ നിന്നുള്ള പിശകും ശ്രമിക്കേണ്ടതുണ്ട് അതിനാൽ ന്യായമായ മൂല്യങ്ങൾ ലഭിക്കുന്ന അത്തരം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശ മൂല്യങ്ങളാണ് അതിനാൽ മറ്റൊരു കാര്യം ഡിസി മോട്ടോറിന്റെ വേഗത നിയന്ത്രണം ആണ് അതിനാൽ ഞങ്ങൾക്ക് Eb ∅ Z n 60 P A അറിയാം അതിനാൽ n Eb യഥാർത്ഥത്തിൽ V അർമേച്ചർ സർക്യൂട്ടിൽ ഡ്രോപ്പ്